ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് സ്ട്രാറ്റജിക് എച്ച്ആർഎമ്മിന്റെ മൾട്ടി ലെവൽ മോഡലിനെ കുറിച്ച് കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു കൂടാതെ വിവിധ തലങ്ങളിൽ സ്ട്രാറ്റജിക് HRM എങ്ങനെ വികസിക്കുന്നുവെന്ന് ഞാൻ വിവരിച്ചു ഇപ്പോൾ ഞാൻ അടുത്ത ഇഷ്യൂലേക്ക് പോകും അത് ഭാവിയിലേക്കുള്ള ഇമ്പ്ലിക്കേഷനുകളാണ് കൂടാതെ ഇവയാണ് ഞാൻ ഉപയോഗിച്ച സ്രോതസ്സുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനാൽ നമ്മൾ ഇതിനകം തന്നെ ജിയാങ് ടേക്കൂച്ചി ലെപാക്ക് എന്നിവരുടെ പേപ്പർ കവർ ചെയ്തു ഇപ്പോൾ അടുത്ത സ്ലൈഡുകളിൽ സ്വാർട്ടിന്റെയും കിന്നിയുടെയും ഈ പേപ്പർ ഞാൻ കവർ ചെയ്യും ഞാൻ ഈ പേപ്പർ വീണ്ടും കാണിക്കും എനിക്കത് ഇവിടെത്തന്നെയുണ്ട് ഇതാണ് പേപ്പർ റീ കൺസിഡറിങ് ബൌണ്ടറീസ് എന്ന് അതിനെ വിളിക്കുന്നു ഇത് ഒരു നെറ്റ്വർക്ക് ലോകത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റാണ് നമ്മൾ സംസാരിക്കുന്നത് ഭാവിയിലേക്കുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്നെക്കുറിച്ചാണ് കൂടാതെ ഇതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പ്രഭാഷണത്തിന്റെ ഈ ഭാഗത്തിന് ഭാവിയിലേക്കുള്ള ഇമ്പ്ലിക്കേഷൻസ് എന്ന് ഞാൻ തലക്കെട്ട് നൽകിയിരിക്കുന്നത് ഒരു നെറ്റ്വർക്ക് ലോകത്തെ സ്ട്രാറ്റജിക് എച്ച്ആർഎം മാനുഷിക മൂലധനത്തിന്റെ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ റിലേഷണൽ കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും പ്രത്യേകമായി ടീം അടിസ്ഥാനമാക്കിയുള്ള ഫലപ്രാപ്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലോകം നെറ്റ്വർക്കിംഗിലേക്ക് നീങ്ങുകയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നതിലേക്ക് ലോകം നീങ്ങുകയാണ് പരസ്പരം കടംവാങ്ങിയും പരസ്പരം പിന്തുണച്ചും പരസ്പരം സൌകര്യം ചെയ്തുകൊണ്ടും ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച പ്രതിഭകൾ മികച്ച കഴിവുകൾ ഒരാൾക്ക് കണ്ടെത്താനാകുന്നിടത്തെല്ലാം നേടിക്കൊണ്ട് ലോകം നീങ്ങുകയാണ് പരസ്പരം ബന്ധം ഇനി ഒരു പ്രശ്നമല്ല ഞാൻ വളർന്നപ്പോൾ ഒരു അക്ക ഫോൺ നമ്പർ മുതൽ 10 അക്ക ഫോൺ നമ്പറുകൾ വരെയുള്ള ഫോൺ നമ്പറുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും ഒരുപക്ഷേ കുറച്ച് മുമ്പ് അത് പോലെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ല കൂടാതെ ആരുമായും ബന്ധപ്പെടുന്നത് എളുപ്പമായിരുന്നില്ല ഞാൻ എന്റെ കൌമാരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ട്രങ്ക് കോളുകൾ ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് എന്റെ മാതാപിതാക്കളും ഞങ്ങളും വളർന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ആക്സസ് ഇല്ലായിരുന്നു അതായത് ഞങ്ങൾ 20 കളിൽ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൌമാരത്തിന്റെ അവസാനത്തിലോ ആയിരിക്കുമ്പോഴാണ് STD കൾ വന്നത് അതുവരെ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണമായിരുന്നു കൂടാതെ മറ്റൊരു നഗരത്തിൽ ആരോടെങ്കിലും സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു ഫോൺ ഉള്ളത് ഒരു ആഡംബരമായിരുന്നു അതൊരു അനിവാര്യത ആയിരുന്നില്ല അയൽവാസിയുടെ വീട്ടിൽ ഫോൺ വിളിക്കേണ്ട സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ അതായിരുന്നു പതിവ് കോളനിയിലെ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയി മറ്റാരുടെയെങ്കിലും വീട്ടിൽ ഫോൺ കോളുകൾ സ്വീകരിക്കും അത് കുഴപ്പമില്ലായിരുന്നു കൂടാതെ ആളുകൾ മറ്റൊരാളുടെ വീട്ടിൽ ഇരുന്നു ടിവി കാണും ഇക്കാലത്ത് എല്ലാ വീട്ടിലും ടിവി ഉണ്ട് കൂടാതെ നൂറ് ചാനലുകൾ കൂടാതെ എല്ലാവർക്കും ഒരു സെൽ ഫോൺ ഉണ്ട് അതിനാൽ ലോകമെമ്പാടുമുള്ള ആളുകളുമായി ബന്ധം നിലനിർത്തുന്നത് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് എല്ലാവർക്കും ഇന്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ട് കൂടാതെ ആളുകളുമായി ബന്ധം നിലനിർത്തുന്നത് വളരെ എളുപ്പമാണ് NPTEL പ്രോഗ്രാമുകളുടെ വികസനത്തിനുള്ള മുഴുവൻ അടിസ്ഥാനവും മുഴുവൻ അടിത്തറയും അതാണ് അതിനാൽ നമ്മൾ കഴിവുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് അത് ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് സഹായിക്കുന്നു പ്രത്യേകിച്ചും ടീം അടിസ്ഥാനമാക്കിയുള്ള ഫലപ്രാപ്തി നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിഗത ജോലി എന്തായാലും നിങ്ങൾക്ക് അറിയാമോ വ്യത്യസ്ത വിഷയങ്ങളിൽ വിദഗ്ധരായ വ്യത്യസ്ത ആളുകളുടെ പിന്തുണ നിങ്ങൾക്ക് ആവശ്യമാണ് കൂടാതെ ഈ നെറ്റ്വർക്കിംഗ് ഓൺലൈനിൽ ക്ലൌഡിൽ നടക്കുന്നു അതിനാൽ കഴിവുകളുടെയും ടീം അധിഷ്ഠിത ഫലപ്രാപ്തിയുടെയും കാര്യത്തിൽ നമ്മൾ ഏറ്റവും മികച്ച വിഭവങ്ങളാണ് എടുക്കുന്നത് കൂടാതെ അത് എച്ച്ആർ പ്രൊഫഷണലിന് മാത്രമേ സുഗമമാക്കാൻ കഴിയൂ മാത്രമല്ല പ്രാഥമികമായി എച്ച്ആർ പ്രൊഫഷണലിന്റെ ചില നിർവചിക്കുന്ന സവിശേഷതകൾ എച്ച്ആർ ഫംഗ്ഷനുകൾ അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു വ്യത്യസ്ത മോഡലുകൾ ഉണ്ട് ഒരു നെറ്റ്വർക്ക് ലോകത്ത് സ്ട്രാറ്റജിക് HRM ന്റെ നാല് മോഡലുകൾ ഉണ്ട് നമ്മൾക്ക് ബഫറിംഗ് മോഡൽ ഉണ്ട് കൂടാതെ ഈ മോഡലിന്റെ സവിശേഷത ഫ്ലൂയിഡിറ്റി ആണ് ഈ മോഡലുകളെല്ലാം ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുമായി വിശദമായി പങ്കിടും ബോറോയിങ് മോഡൽ കൂടാതെ നിർവചിക്കുന്ന സ്വഭാവസവിശേഷതകൾ നെറ്റ്വർക്കിന്റെ തലത്തിൽ അനുഭവം വർദ്ധിപ്പിക്കുക എന്നതാണ് നെറ്റ്വർക്ക് ലെവൽ കാര്യക്ഷമതയിൽ കലാശിക്കുന്ന അംഗത്വത്തിന്റെയും എച്ച്ആർഎം സമ്പ്രദായങ്ങളുടെയും ദ്വൈതതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബാലൻസിങ് മോഡലും ഉണ്ട് ഇവയുടെ അർത്ഥമെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം നെറ്റ്വർക്ക് ഓർഗനൈസേഷന്റെ ചില വെല്ലുവിളികൾ ആദ്യത്തെ വെല്ലുവിളി നെറ്റ്വർക്കുചെയ്ത ജോലി നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്നത് ടീമുകളിൽ പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നത് സാമ്പത്തിക മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും സഹ സൃഷ്ടിയാണ് സഹ സൃഷ്ടി എന്നാൽ ഒരുമിച്ച് നിർമ്മിക്കുക ഒരുമിച്ച് സൃഷ്ടിക്കുക ഒരുമിച്ച് രൂപീകരിക്കുക ഒരുമിച്ച് നിർമ്മിക്കുക ഒരുമിച്ച് ഉൽപ്പാദിപ്പിക്കുക സാമ്പത്തിക മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ടീമുകളിൽ പ്രവർത്തിക്കുക അത് ഓഹരി ഉടമകൾക്ക് പ്രയോജനകരവും അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് സാധ്യമായ ഏറ്റവും മികച്ച സേവനവും മികച്ച ഔട്ട്പുട്ടും നൽകുന്നതിന് വ്യത്യസ്ത ആളുകൾ ഒത്തുചേരുന്നു ഇത് ഒരു ഓർഗനൈസേഷനിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിരുകളില്ലാത്ത ഓർഗനൈസേഷനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ആ ആശയം ഓർക്കുക ഈ ഓർഗനൈസേഷനിൽ അതിരുകളില്ല വിതരണക്കാർ പങ്കാളികൾ ക്ലയന്റുകൾ ഉപഭോക്താക്കൾ എന്നിവർ ആളുകളെ നിയന്ത്രിക്കുന്ന രീതിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നെറ്റ്വർക്കുചെയ്ത പ്രവർത്തനം പരിഗണിക്കേണ്ടതുണ്ട് നെറ്റ്വർക്കുചെയ്ത പ്രവർത്തനത്തിന്റെ വ്യക്തിഗത വീക്ഷണം നോക്കുകയാണെങ്കിൽ ജീവനക്കാരുടെ ഐഡന്റിറ്റികൾ ലിമിനൽ സ്പെയ്സിൽ ആണ് ലിമിനൽ സ്പേസ് എന്നത് ജീവനക്കാർക്ക് അവരുടെ ഓർഗനൈസേഷനുകൾക്കും അവരുടെ ക്ലയന്റുകൾക്കും ഉള്ള കണക്ഷൻ തമ്മിലുള്ള ഇടത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ഈ പിരിമുറുക്കത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കും പക്ഷേ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് നമ്മൾക്കറിയില്ല ഏറ്റവും മികച്ചത് നൽകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കഴിവുകളിലൂടെ നമുക്കുള്ള ബന്ധം മാറാം മാറാതിരിക്കാം പക്ഷേ അത് അനിശ്ചിതത്വത്തിലാകാം അത് ആശയക്കുഴപ്പത്തിലാകാം പ്രത്യേകിച്ച് ഒരു എച്ച്ആർ പ്രൊഫഷണൽ എന്ന നിലയിൽ ഞാൻ ആരോടാണ് കൂടുതൽ ഉത്തരം പറയേണ്ടതെന്ന് എനിക്കറിയില്ല തത്വശാസ്ത്രപരമായി ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എച്ച്ആർ പ്രൊഫഷണലുകൾ ഉണ്ട് പക്ഷേ ജോലി പൂർത്തിയായി എന്നും അത് എങ്ങനെ ചെയ്യണം എന്നും ഉറപ്പാക്കാൻ അവരുമുണ്ട് നിങ്ങൾ എവിടെയാണ് വര വരയ്ക്കുന്നത് നിങ്ങൾ ഏത് ഭാഗത്താണ് അതിനാൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുമ്പോൾ ജീവനക്കാർക്ക് വീണ്ടും ഒരുതരം സമ്മർദ്ദം അനുഭവപ്പെടുന്നു അവർ ഉപഭോക്താവിന് ഏറ്റവും മികച്ച മൂല്യം നൽകണമോ അല്ലെങ്കിൽ അവർ തടഞ്ഞുനിർത്തി മൂലകൾ വെട്ടി സ്ഥാപനത്തിന് പരമാവധി ലാഭം ഉറപ്പാക്കണമോ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് സേവന വ്യവസായത്തിൽ ഞാൻ എവിടെയാണ് വര വരയ്ക്കുക ഞാൻ കാൾ ഓഫ് ഡ്യൂട്ടിക്ക് മുകളിൽ പോയി ഓരോ ഉപഭോക്താവിനും സാധ്യമായ ഏറ്റവും മികച്ച സേവനം നൽകണോ ആവാം ആവാതിരിക്കാം അല്ലെങ്കിൽ ഞാൻ മൂലകൾ മുറിക്കണോ അപ്പോൾ ആരോടാണ് എന്റെ കൂറ് കൂടാതെ ഈ സ്വത്വബോധം ഈ സുഖപ്രദമായ ഇടം ഞങ്ങളുമായുള്ള ഒരു സംഭാഷണത്തിലൂടെ നമ്മൾ സ്ഥാപിച്ചു ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു ഞാൻ ഓപ്ഷനുകൾ നൽകുന്നു എന്നിട്ട് തീരുമാനിക്കൂ ഇത് ഒരു ആവർത്തിച്ചുള്ള ഉപഭോക്താവായിരിക്കും ഈ ഉപഭോക്താവുമായി എനിക്ക് ഒരു ദീർഘകാല ബന്ധം ഉണ്ടാകാൻ പോകുന്നു ഒരുപക്ഷേ എനിക്ക് കാൾ ഓഫ് ഡ്യൂട്ടിക്ക് മുകളിലേക്കും അപ്പുറത്തേക്കും പോയി ഈ ഉപഭോക്താവിനെ സഹായിക്കേണ്ടതുണ്ട് ഈ ഉപഭോക്താവ് ദീർഘകാലത്തേക്ക് എന്നോടൊപ്പം ഉണ്ടാകില്ല ഈ ഉപഭോക്താവ് ഒരിക്കൽ ഒരു ഉൽപ്പന്നമോ സേവനമോ വാങ്ങാൻ പോകുകയാണ് അത് ധാർമികമാണെന്ന് ഞാൻ പറയുന്നില്ല സാഹചര്യത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് എന്നാൽ നമ്മുടെ സാഹചര്യം നോക്കിയാണ് നമ്മൾ ഇത് തീരുമാനിക്കുന്നത് പിന്നെ നമ്മൾ ഇത് എങ്ങനെ തീരുമാനിക്കും നമുക്കൊരു ഡയലോഗുണ്ട് നമ്മോട് തന്നെ ഒരുപാട് സ്വയം സംസാരമുണ്ട് അത് തുടരുന്നു ഇത് സാധാരണയായി ചിന്ത എന്ന് ലേബൽ ചെയ്യപ്പെടുന്നു അത് ലളിതമാണ് അതിനാൽ തങ്ങളും കക്ഷികളും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ അവർ സംവദിക്കുന്നു സ്വയം സംസാരമുണ്ട് തീരുമാനമെടുക്കൽ ഉണ്ട് നിങ്ങൾ ഇടപെടുന്നവരുമായി ചർച്ചയും നടക്കുന്നുണ്ട് ഇതിനുള്ള വെല്ലുവിളികൾ വ്യക്തികളുടെ മേൽ വിവിധ പങ്കാളികളിൽ നിന്ന് ഒന്നിലധികം സമയ ടാർഗെറ്റ് ആവശ്യങ്ങൾ ഉണ്ട് ഇത് രണ്ട് സമന്വയങ്ങളും സൃഷ്ടിച്ചേക്കാം അത് ഇരുവർക്കും മൂല്യം സൃഷ്ടിക്കുന്നു ഒപ്പം സംഘർഷങ്ങൾ ആരുടെ ആവശ്യം ആദ്യം സേവനത്തിന് എടുക്കണം മുതലായവ ഇരുവശത്തുനിന്നും വൈകാരിക വലിവുകൾ എനിക്ക് കണക്റ്റുചെയ്യണം എന്റെ ഉപഭോക്താവിനോട് പ്രതിബദ്ധത പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സ്ഥാപനത്തോടുള്ള കൂറ് കാണിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു ഒപ്പം പ്രതിബദ്ധതയുടെ ബോധം ഒരു വെല്ലുവിളിയായി മാറുന്നു ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ എന്റെ പ്രതിബദ്ധത എവിടെയാണ് പിന്നെ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസിൽ പോയി ഒരു ജീവനക്കാരനെന്ന നിലയിൽ അവരുടെ സഹായത്തോടെ ഇത് മനസിലാക്കാൻ ശ്രമിക്കുന്നു നെറ്റ്വർക്കുകളുടെ തരങ്ങൾ ഇന്ററാക്ടീവ് നെറ്റ്വർക്കിംഗ് ഇടപാടുകാർക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിന് പങ്കാളികളുമായും വിതരണക്കാരുമായും ഉള്ള ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തെ ഇന്ററാക്ടീവ് നെറ്റ്വർക്കിംഗ് സൂചിപ്പിക്കുന്നു ഇന്ററാക്ടീവ് നെറ്റ്വർക്കിംഗിന്റെ ലക്ഷ്യം നെറ്റ്വർക്ക് പങ്കാളികളുമായി സജീവമായി ഇടപഴകുന്നതിലൂടെയും ഉറച്ച നിർദ്ദിഷ്ട കഴിവുകൾ സംരക്ഷിക്കുന്നതിലൂടെയും ഓർഗനൈസേഷനോടുള്ള ശക്തമായ പ്രതിബദ്ധതയിലൂടെയും ക്ലയന്റുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് അതിനാൽ ക്ലയന്റിന് എന്താണ് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തുന്നു കൂടാതെ ആർക്കാണ് അവർക്ക് നൽകാൻ കഴിയുക ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് നൽകാൻ ഞങ്ങളെ സഹായിക്കാൻ ആർക്കൊക്കെ കഴിയും എന്ന് നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ നമ്മൾ കൺസൾട്ടന്റുകളെ ആശ്രയിക്കുന്നു നമ്മൾക്ക് വിദഗ്ധരെ ലഭിക്കുന്നു നമ്മൾക്ക് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകളെ ലഭിക്കുന്നു കൂടാതെ നമ്മൾ മുന്നോട്ട് പോയി ക്ലയന്റിന് എന്തെങ്കിലും വിതരണം ചെയ്യുന്നു അതിനാൽ ഉറച്ച നിർദ്ദിഷ്ട കഴിവുകൾ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ബൌദ്ധിക മൂലധനത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്തുവെന്ന് നമ്മൾ പങ്കിടുന്നില്ല നമ്മൾ അവർക്ക് അന്തിമ ഉൽപ്പന്നം നൽകുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം നമ്മളുടെ ഡിപ്പാർട്മെന്റിന്റെ വെബ്സൈറ്റ് നമ്മൾ വികസിപ്പിക്കുന്നു അതിനാൽ ആ വെബ്സൈറ്റ് വികസിപ്പിക്കാൻ ഞാൻ സഹായിക്കുന്നു കൂടാതെ അത് ചെയ്യാൻ എന്നെ സഹായിക്കുന്ന മറ്റൊരാൾ ഉണ്ട് ഇപ്പോൾ അവർ എങ്ങനെ ചെയ്തു എന്താണ് ചെയ്തതെന്ന് ഇത് വരെ എന്നെ പഠിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് മാത്രമാണ് അവർ എന്നെ പഠിപ്പിക്കുന്നത് പ്രധാന കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അവർ എന്നെ പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അത് അവരുടെ ബൌദ്ധിക മൂലധനമാണ് അവർ ആ വിവരം എന്നോട് പങ്കുവെച്ചാൽ ഭാവിയിൽ എനിക്ക് അവരെ ആവശ്യമില്ലാതാവുന്നു അങ്ങനെ അത് കഷണങ്ങളായി സംഭവിക്കുന്നു അവർ നമുക്കുവേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഞങ്ങളോട് പണം ഈടാക്കുന്നു അങ്ങനെ അത് കഷണങ്ങളായി സംഭവിക്കുന്നു കൂടാതെ വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് മാത്രമേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ ചെയ്യാം പക്ഷേ എല്ലാത്തിനും അവർ യഥാർത്ഥ കഴിവുകൾ യഥാർത്ഥ വിവരങ്ങൾ യഥാർത്ഥ അറിവ് സ്വന്തം കൈകളിൽ സൂക്ഷിക്കുന്നു ഇത് ധാർമ്മികമാണോ അതോ അധാർമ്മികമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് അവരുടെ ബൌദ്ധിക സ്വത്താണ് അവർ അത് പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ ഉറച്ച പ്രത്യേക കഴിവുകൾ നിങ്ങൾ സംരക്ഷിക്കുന്നു ഇതിനർത്ഥം നിങ്ങളുടെ ശക്തമായ പ്രതിബദ്ധത നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നാണ് പക്ഷേ സ്ഥാപനത്തിന് അറിയുന്നതെന്തും ഞങ്ങളുമായി പങ്കിടുന്നില്ല ഓരോ പങ്കാളിയിലും മുതിർന്ന തലങ്ങളിലെ വിവിധ പങ്കാളികൾ തമ്മിലുള്ള ഇടയ്ക്കിടെയുള്ള ഇടപെടലാണ് സ്വഭാവസവിശേഷതകൾ അതിനാൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഒത്തുചേരുന്നു കൂടാതെ അവർ പരസ്പരം വ്യത്യസ്ത കാര്യങ്ങൾ പങ്കിടുന്നു മുതിർന്ന ആളുകൾ ഒത്തുചേരുന്നു അവരുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു പലപ്പോഴും ഈ ആവശ്യങ്ങളുടെ നിറവേറ്റുൽ പങ്കിടില്ല ഈ നെറ്റ്വർക്കിംഗിന്റെ ഫലമായി ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ ആന്തരിക തൊഴിൽ പ്രാക്ടീസ് ഇക്വിറ്റി സ്ഥാപിക്കൽ ആണ് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നിങ്ങൾ ആന്തരിക തൊഴിൽ പ്രാക്ടീസ് ഇക്വിറ്റി സ്ഥാപിക്കുന്നത് എന്തെങ്കിലും ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അന്തിമഫലത്തിനായി പ്രവർത്തിക്കാൻ പോകുന്ന ജീവനക്കാർക്കിടയിൽ നിങ്ങൾ എങ്ങനെ ന്യായബോധം സൃഷ്ടിക്കും മാത്രമല്ല നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു അതൊരു വലിയ വെല്ലുവിളിയാണ് ഗ്രഹിച്ച മൂല്യവും ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രഹിച്ച പരിശ്രമവും അളക്കേണ്ടതുണ്ട് കൂടാതെ സന്തുലിതമാക്കേണ്ടതുമുണ്ട് അതിൻ്റെ സ്വന്തം എച്ച്ആർഎം സമ്പ്രദായങ്ങൾ നെറ്റ്വർക്ക് പങ്കാളികളുടെ തൊഴിൽ രീതികൾ എന്നിവയ്ക്കിടയിലുള്ള ബൌണ്ടറി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് രണ്ടോ മൂന്നോ സംഘടനകൾ ഉൾപ്പെടുമ്പോൾ പ്രയോഗങ്ങൾ തമ്മിൽ ചേരാതിരിക്കാം ആളുകൾക്ക് നൽകേണ്ട കൂലി എന്താണ് ഏത് തരത്തിലുള്ള വിഭവങ്ങളാണുള്ളത് നിങ്ങൾ അവ നൽകുന്നുണ്ടോ നിങ്ങൾ എവിടെയാണ് വര വരയ്ക്കുന്നത് ജോലി സമയം അതായത് അത് ദീർഘകാലമാണെങ്കിൽ പിന്നെ അവധിക്കാല നയങ്ങൾ ആരെ നിയമിക്കാം ആരെയാണ് ശാസിക്കേണ്ടത് ആർക്കൊക്കെ എന്തൊക്കെ ജോലിയാണ് കൊടുക്കേണ്ടത് അതെല്ലാം എച്ച്ആർ പ്രൊഫഷണലിന്റെ ഉത്തരവാദിത്തമായി മാറുന്നു അതിനാൽ നിങ്ങളുടെ സ്വന്തം ജോലി എവിടെയാണ് ചെയ്യുന്നത് മറ്റ് ഓർഗനൈസേഷൻ നിർദ്ദേശിച്ച പ്രശ്നങ്ങൾ നിങ്ങൾ എവിടെയാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടെത്തുക അവ്യക്തമായ അധികാര ബന്ധങ്ങളും ക്ലയന്റ് ഡിമാൻഡുകളും ഇവിടെ മൂന്നാമത്തെ പോയിന്റാണ് ഇവിടെ മൂന്നാമത്തെ ടെൻഷൻ ആരാണ് ഉത്തരം പറയേണ്ടത് ഇതാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ഈ പോയിന്റ് യഥാർത്ഥത്തിൽ ആരാണ് ഉത്തരവാദി അല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ ഉത്തരം നൽകണം കൂടാതെ ക്ലയന്റുകളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത സ്പെഷ്യലൈസ്ഡ് അറിവ് നൽകൽ പുതിയ അറിവ് സൃഷ്ടിക്കൽ പരീക്ഷണത്തിന്റെ ചെലവിലൂടെ വിൽക്കാൻ കഴിയും കൂടാതെ ആരാണ് ചെലവ് ഏറ്റെടുക്കുന്നത് ക്ലയന്റ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് വെണ്ടറോടോ സേവന ദാതാവോടോ മാത്രമേ ക്ലയന്റ് പറയൂ സേവന ദാതാവ് പോയി ആ പ്രശ്നം പരിഹരിക്കുന്നു കൂടാതെ സേവന ദാതാവ് ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ സേവന ദാതാവ് ഒരു റോഡ്ബ്ലോക്ക് അടിച്ചേക്കാം കൂടാതെ നമുക്ക് കൂടുതൽ പരിഹാരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ആ സമയത്ത് ചില കൂടുതൽ ചിലവുകൾ ആവശ്യമായി വന്നേക്കാം ആരാണ് ഈ ചെലവുകൾ ഏറ്റെടുക്കുന്നത് ആരാണ് എത്ര പരീക്ഷണം സ്വീകാര്യമാണ് എന്നത് തീരുമാനിക്കുന്നത് കൂടാതെ അവർ എവിടെ പോകും പരീക്ഷണച്ചെലവ് ആശങ്കകളാകുമ്പോൾ അവർ ഒരു പരിധി മറികടക്കും അതിനാൽ സംവേദനാത്മക നെറ്റ്വർക്കിംഗിനൊപ്പം വരുന്ന ചില ടെൻഷനുകൾ ഇവയാണ് തുടർന്ന് ഒരു പ്രത്യേക നെറ്റ്വർക്ക് ലെവൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി സ്ഥാപനങ്ങളുടെ സഹകരണമുള്ള പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉണ്ട് ഉദാഹരണത്തിന് സിനിമാ നിർമ്മാണം നിങ്ങളിൽ എത്ര പേർ സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് കാണാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടീം പ്രയത്നം പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ ബന്ധപ്പെടുക കൂടാതെ ചലച്ചിത്ര നിർമ്മാണം പോലെ സങ്കീർണ്ണമായ ഒന്നിൽ എച്ച്ആർ പ്രാക്ടീസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു കേസ് സ്റ്റഡി എഴുതാം ഇത് പഠിക്കാനുള്ള ഒരു അത്ഭുതകരമായ മേഖലയാണെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പുണ്ട് പലരും പഠിച്ചിട്ടുണ്ട് പലരും ഇപ്പോഴും ബോളിവുഡ് പഠിക്കുന്നുണ്ട് എനിക്കും താൽപ്പര്യമുണ്ടാകും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാദേശിക സിനിമാ വ്യവസായം നോക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ കൺസൾട്ടിംഗ് വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ കണ്ടത്തേണ്ടതുണ്ട് ഒരു പാലം അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയം അല്ലെങ്കിൽ മാൾ മുതലായവയുടെ നിർമ്മാണം ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന നെറ്റ്വർക്കിംഗാണ് നമ്മൾ നിരന്തരം പരസ്പരമുള്ളവരുടെ ജീവിതത്തിലാണ് പരസ്പരമുള്ളവരുടെ വിഭവങ്ങളിൽ നിന്ന് നമ്മൾ നിരന്തരം എടുക്കുന്നു മറ്റൊരാൾക്കുള്ളതെന്തും നമ്മൾ നിരന്തരം കെട്ടിപ്പടുക്കുകയാണ് എല്ലാവരും ഈ പ്രക്രിയയിൽ ഏറെക്കുറെ തുല്യമായി പങ്കാളികളാണ് റിലേഷണൽ ടെൻഷനുകളിൽ ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് സാഹചര്യത്തിൽ ഔട്ട്പുട്ടുകളുടെ ഉടമ്പടിയുള്ള ചില ടെൻഷനുകൾ ഉൾപ്പെടുന്നു ആര് തീരുമാനിക്കും എന്താണ് മതിയാവുന്നത് എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രശ്നത്തിന് ഏറ്റവും മികച്ച പ്രൊഫഷണൽ പരിഹാരം സംബന്ധിച്ച് സഹകരണ തീരുമാനം തുടങ്ങിയവ കൂടാതെ ഏറ്റവും ചെലവ് കുറഞ്ഞ പരിഹാരം എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ട് അതിനാൽ സംഘടനാപരമായ പ്രതിബദ്ധത ദുർലഭമായ വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം വിശ്വാസം തൊഴിൽ ചെലവ് കുറയ്ക്കൽ തുടങ്ങിയവ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ ധാരാളം അടിസ്ഥാന സൌകര്യ പദ്ധതികൾ വരുന്നുണ്ട് കൂടാതെ ഈ സങ്കീർണ്ണമായ പരസ്പരബന്ധങ്ങൾ എങ്ങനെ കടന്നുപോകുന്നു എങ്ങനെയാണ് സ്ട്രാറ്റജിക് എച്ച്ആർ പഠിക്കുന്നത് എന്നറിയാൻ ഇത് കേൾക്കുന്ന ഈ പ്രോജക്റ്റുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരുമായി പങ്കാളിയാകാൻ എനിക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ എന്നെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ല പിന്നെ പരസ്പരബന്ധിതമായ നെറ്റ്വർക്കിംഗിന്റെ ലക്ഷ്യം നെറ്റ്വർക്കിന്റെ പ്രകടനത്തിന്റെ മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് മികച്ച രീതികൾ പങ്കിടൽ ഇതിൽ പരസ്പരബന്ധിതമായ ഒരു ശൃംഖലയിൽ മികച്ച സമ്പ്രദായങ്ങൾ പങ്കിടുന്നത് വളരെ പ്രധാനമാണ് ഇവിടെയുള്ള പിരിമുറുക്കങ്ങൾ അറിവ് പങ്കിടൽ മത്സരാധിഷ്ഠിത നേട്ടം നഷ്ടപ്പെടൽ എന്നിവയാണ് കൂടാതെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച അധികാര പോരാട്ടങ്ങളും ജോലിയുടെ ദിശയെ സംബന്ധിച്ച തീരുമാനങ്ങളും ഈ മോഡലുകൾ ചർച്ചചെയ്യുന്നു ഇനിപ്പറയുന്ന മോഡലുകൾ ചർച്ചചെയ്യുന്നു ഇപ്പോൾ നമ്മൾ മോഡലുകളിലേക്ക് നീങ്ങും നമ്മൾ വ്യത്യസ്ത തരം നെറ്റ്വർക്കിംഗ് സംസാരിച്ചു ഇപ്പോൾ നെറ്റ്വർക്ക് ടെൻഷനുകൾ കൈകാര്യം ചെയ്യുന്നതിനായി HRM സമ്പ്രദായങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചില മോഡലുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കും നമ്മൾ സംസാരിക്കുന്ന മൂന്ന് മോഡലുകൾ നെറ്റ്വർക്ക് ബഫർ ചെയ്യുക നെറ്റ്വർക്കിൽ നിന്ന് കടം വാങ്ങുക നെറ്റ്വർക്ക് ബാലൻസ് ചെയ്യുക എന്നിവയാണ് കൂടാതെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ചില സവിശേഷതകൾ നൽകി നെറ്റ്വർക്ക് ബഫർ ചെയ്യുക ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃക ഫ്ലെക്സിബിൾ റിസോഴ്സിംഗ് മോഡൽ എന്നും അറിയപ്പെടുന്നു ഫ്ലെക്സിബിൾ റിസോഴ്സിംഗ് മോഡൽ എന്നത് സ്ഥാപനത്തിന്റെ തലത്തിൽ എച്ച്ആർഎം സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന ഒരു മാതൃകയെ സൂചിപ്പിക്കുന്നു കൂടാതെ സംഘടനാ പരിധിക്കുള്ളിൽ അറിവും സ്പെഷ്യലിസ്റ്റ് വൈദഗ്ധ്യവും നങ്കൂരമിടുമ്പോൾ നെറ്റ്വർക്ക് ആവശ്യങ്ങൾ മാറുന്നതിനോട് പ്രതികരിക്കാനുള്ള വഴക്കം സ്ഥാപനങ്ങൾ നിലനിർത്തുന്നു അതിനാൽ നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് ഇന്ററാക്ടിവ് നെറ്റ്വർക്കിംഗിനെക്കുറിച്ചാണ് കൂടാതെ ക്രോസ് ബൌണ്ടറി ക്രമീകരണത്തിൽ ഒരു സഹകാരിയിലോ ക്ലയന്റിലോ ചേരാനുള്ള അവസരങ്ങളുടെ തീവ്രതയെക്കുറിച്ചുള്ള അവബോധം വ്യക്തമാക്കുന്ന ഓർഗനൈസേഷണൽ മൂല്യങ്ങളുമായി HRM സിസ്റ്റങ്ങളെ ലിങ്ക് ചെയ്യുന്നതിലൂടെ ഇത് കൈവരിക്കാനാകും ഏതെങ്കിലും തരത്തിലുള്ള അവസരം ഉണ്ടെന്ന് അവർ അറിഞ്ഞിരിക്കണമെന്ന് വ്യക്തികൾ തീരുമാനിക്കുന്നു ഒപ്പം അവർ എത്തിച്ചേരുകയും വേണം ഒപ്പം ആ അവസരങ്ങൾ മുതലെടുക്കാൻ അവർക്ക് കഴിയണം ടീമുകളിലേക്കുള്ള സ്റ്റാഫ് അലോക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായി ബന്ധങ്ങളെ ഇവിടെ വിവരിച്ചിരിക്കുന്നു കൂടാതെ വിശാലമായ കഴിവുകളുടെ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യക്തികൾ കഴിവുകൾ വികസിപ്പിക്കുന്നു അവർ പുറത്തേക്ക് പോകുന്നു അവർക്ക് ജോലി ലഭിക്കുന്നു പ്രകടന മാനേജ്മെന്റും റിവാർഡ് സംവിധാനങ്ങളും സാംസ്കാരികവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഓർഗനൈസേഷനോടുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നു അതിനാൽ ഫ്ലെക്സിബിൾ റിസോഴ്സിംഗ് വ്യക്തിഗത തലത്തിലുള്ള വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട് അവർ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ക്രമീകരണത്തിനും ഓർഗനൈസേഷൻ പ്രതിജ്ഞാബദ്ധമായ കാര്യങ്ങൾക്കും ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ക്ലയന്റുകൾക്ക് വേണ്ടി ചെയ്യുന്നതിലേക്കും സംഭാവന ചെയ്യുന്നു നെറ്റ്വർക്കിൽ നിന്ന് കടം വാങ്ങുന്നത് ഇത് രണ്ടാമത്തെ മോഡലാണ് കൂടാതെ ഇവിടെ പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരസ്പര പൂരകത്വം പ്രയോജനപ്പെടുത്തുന്നതിലാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പങ്കിടുന്നില്ല നിങ്ങൾ പരസ്പരം കടം വാങ്ങുന്നു നിങ്ങൾ ഒരു ജോലി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ചുമതലയുള്ളവരാണ് നിങ്ങൾ ആ കഴിവ് മറ്റൊരാളിൽ നിന്ന് എടുക്കുന്നു നെറ്റ്വർക്കിന്റെ തലത്തിൽ ഉയർന്നുവരുന്ന റിസോഴ്സിംഗ് പോലുള്ള ചില സമ്പ്രദായങ്ങളോടെ സ്ഥാപനത്തിന്റെ തലത്തിൽ HRM സമ്പ്രദായങ്ങൾ നിലവിലുണ്ട് മുമ്പത്തെ മോഡലിൽ നിങ്ങൾ നെറ്റ്വർക്കിലേക്ക് സംഭാവന ചെയ്യുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് നെറ്റ്വർക്ക് തീരുമാനിക്കുന്നു കൂടാതെ വിവിധ സ്ഥാപനങ്ങളിലെ വിഭവങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് പിൻവലിക്കുന്നു ഇവിടെ ഉറച്ച തലത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറച്ച നില തീരുമാനിച്ചു കൂടാതെ നെറ്റ്വർക്കിൽ നിന്ന് ആവശ്യമുള്ളതെന്തും നെറ്റ്വർക്കിൽ നിന്ന് വലിക്കുന്നു വ്യക്തിക്കും സ്ഥാപനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ പഠനം പ്രയോജനപ്പെടുത്തുമ്പോൾ നെറ്റ്വർക്കിന് പ്രയോജനം ചെയ്യുന്ന കോംപ്ലിമെന്ററി കഴിവുകളുടെ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ നെറ്റ്വർക്കിൽ നിന്ന് എടുക്കുന്നു തുടർന്ന് നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ആ കഴിവുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു ഈ സങ്കീർണ്ണമായ ആന്തരിക റിസോഴ്സിംഗ് പ്രക്രിയ തമ്മിലുള്ള തുടർച്ചയായ പിരിമുറുക്കങ്ങൾ കാരണം ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്ന ദീർഘകാലത്തേക്ക് പ്രോജക്റ്റ് ടീമുകളെ ഒരുമിച്ച് നിർത്തുന്നത് ഉൾപ്പെടുന്ന ആഴത്തിലുള്ള വൈദഗ്ധ്യ സമീപനം പിന്തുടരുന്നു തങ്ങൾ ഒരു സ്തംഭനാവസ്ഥയിൽ എത്തിയതായി അവർക്ക് തോന്നുന്നു ഒപ്പം വെല്ലുവിളി നിറഞ്ഞ ജോലിക്കായി ജീവനക്കാർക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നു ഇവ ദീർഘകാല പദ്ധതികളാണ് കൂടാതെ അവർ ആവർത്തിച്ചുള്ള ജോലികൾ ചെയ്യുന്നു എന്ന് ആളുകൾക്ക് തോന്നുന്നു കൂടാതെ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു അതിനാൽ വെല്ലുവിളി വർദ്ധിപ്പിക്കുന്നതിന് ഭാവിയിൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ജോലികൾക്കായി നിങ്ങൾ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു ഭാവിയിലെ ബിസിനസ്സ് വിജയിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രൊഫഷണൽ കഴിവുകൾ ആഴത്തിലാക്കുന്നതിലാണ് വികസനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുകയും ആവശ്യമുള്ളപ്പോൾ നെറ്റ്വർക്കിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നു നെറ്റ്വർക്ക് പ്രവർത്തനങ്ങളിൽ ജീവനക്കാരുടെ ഉയർന്ന പങ്കാളിത്തമുണ്ട് കൂടാതെ നെറ്റ്വർക്കിൽ നിന്ന് ജീവനക്കാർ എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രധാനമായും നോക്കുന്നു അതിനാൽ അവർ നെറ്റ്വർക്കിനുള്ളിൽ വളരെയധികം പങ്കു ചേരുന്നു പക്ഷേ അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നു അവർ നെറ്റ്വർക്കിന്റെ വിഭവങ്ങളുടെ പൂളിൽ നിന്ന് എടുക്കുന്നു നെറ്റ്വർക്കിന്റെ ഉപജീവനം ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനെയും പങ്കാളിത്തത്തിനുള്ള അവസരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ പകരം വയ്ക്കുന്നു നമ്മൾ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നില്ല നമ്മൾ സ്ഥാപനത്തിൽ ഇരിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നെറ്റ്വർക്കിലെ ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ബന്ധപ്പെടുന്നു എന്നിട്ട് അവർ വന്ന് നമ്മളെ സഹായിക്കുന്നു അതിനാൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബന്ധം കെട്ടിപ്പടുക്കുന്നതിലാണ് ആ ബന്ധങ്ങൾ നമുക്കുണ്ടാകണം നമ്മൾക്ക് ആ കോൺടാക്റ്റുകൾ ഉണ്ടായിരിക്കണം നമുക്ക് ആ ശൃംഖല ഉണ്ടായിരിക്കണം കൂടാതെ നെറ്റ്വർക്കിന് അതിജീവിക്കാൻ കൊടുക്കലും വാങ്ങലും നിരന്തരമായി വന്നാൽ മാത്രമേ നെറ്റ്വർക്ക് ജീവിക്കൂ നിങ്ങൾ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണെങ്കിൽ പക്ഷേ നെറ്റ്വർക്കിലെ ആരും നിങ്ങളുടെ കഴിവുകൾക്കായി നിങ്ങളെ വിളിക്കുന്നില്ല ആ നെറ്റ്വർക്കിന്റെ ഭാഗമാകാൻ നിങ്ങൾ ഇനി ആഗ്രഹിക്കില്ല അതിനാൽ നിങ്ങളുടെ പക്കലുള്ള പ്രത്യേക വൈദഗ്ധ്യത്തിന് ഒരു പതിവ് ആവശ്യം ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ പരസ്പരം പ്രത്യേക നൈപുണ്യ സെറ്റുകളെ ബഹുമാനിക്കുകയും നിങ്ങളുടെ സ്വന്തം അടിത്തറ വികസിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ മറ്റൊരാളുടെ വൈദഗ്ധ്യത്തെ ലംഘിക്കുന്നില്ല നെറ്റ്വർക്ക് നിലനിർത്താനുള്ള വഴിയും അതാണ് പക്ഷേ നിങ്ങൾ മറ്റൊരാളുടെ വൈദഗ്ധ്യത്തിൻ മേൽ അതിര് കടക്കരുത് നെറ്റ്വർക്ക് തുടർന്നും നിലനിർത്താനുള്ള വഴിയാണിത് നെറ്റ്വർക്ക് ബാലൻസ് ചെയ്യുന്നു മൾട്ടി ഡൈമൻഷണൽ ചാപല്യം നെറ്റ്വർക്കിന്റെ തലത്തിലും സ്ഥാപനത്തിനകത്തും നിലനിൽക്കുന്ന പോർട്ട്ഫോളിയോ HRM സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് ഇത് അതിനാൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങളും നെറ്റ്വർക്ക് ലെവൽ പ്രക്രിയയും തമ്മിൽ നിങ്ങൾ സന്തുലിതമാക്കാൻ ശ്രമിക്കുക മികച്ച പരിശീലനങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഇവിടെയുള്ള പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് ടാലെന്റ്റ് മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് സമ്പ്രദായങ്ങൾ നെറ്റ്വർക്കിന്റെ തലത്തിൽ ഓരോ സ്ഥാപനത്തിനും കാര്യക്ഷമത ടാർഗെറ്റ് സജ്ജീകരിച്ച് പ്രതിവാരം പ്രകടനം അളക്കുന്നു അതിനാൽ നെറ്റ്വർക്ക് യഥാർത്ഥത്തിൽ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്നു സ്ഥാപനങ്ങൾക്ക് അവരുടേതായ വ്യക്തിഗത ഐഡന്റിറ്റി ഉണ്ട് അവർക്ക് അവരുടേതായ വ്യക്തിഗത കഴിവുകളുണ്ട് പക്ഷേ അവ നെറ്റ്വർക്കിന്റെ തലത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കൂടാതെ നെറ്റ്വർക്കിന്റെ തലത്തിൽ അവരുടെ പ്രൊഫഷണൽ കഴിവുകൾ വികസിപ്പിക്കുന്നത് തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ പ്രകടനം അളക്കുകയും വിലയിരുത്തുകയും ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നത് നെറ്റ്വർക്കിന്റെ തലത്തിലാണ് അല്ലാതെ സ്ഥാപനത്തിന്റെ തലത്തിലല്ല ഇതിന്റെ ഫലം ശൃംഖലയിലുടനീളം ഫലപ്രദമായി വിന്യസിക്കാൻ കഴിയുന്ന വഴക്കമുള്ള മാനുഷിക മൂലധനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വ്യക്തിഗത സ്ഥാപനങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് ഒരു നെറ്റ്വർക്ക് ആയി വികസിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരുമായി മറ്റ് വ്യവസായങ്ങളിൽ പങ്കിടാം മറ്റൊന്നിൽ നെറ്റ്വർക്കിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വലിയ വിഭവങ്ങൾ പോലെയാണ് ഇത് ഈ പ്രത്യേക ശൃംഖലയുടെ ഉദാഹരണം NPTEL നെറ്റ്വർക്ക് എടുക്കാം നമ്മൾ അതായത് ഇത് ഒരു പൂരക കാര്യമല്ല ഐഐടി സംവിധാനത്തിനുള്ളിലെ പ്രൊഫഷണലുകളുടെ ഒരു ശൃംഖലയാണിത് വ്യത്യസ്ത സർവ്വകലാശാലകളിലെ വ്യത്യസ്ത വ്യക്തികൾ വന്ന് അവരുടെ വ്യക്തിഗത ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഈ ശൃംഖലയിലേക്ക് സംഭാവന നൽകാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷേ നമ്മൾ നീട്ടും അത് വളരെ നന്നായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ആ ബന്ധവും വളരെ ശക്തമാണ് കൂടാതെ നമ്മൾ ഒരു ശൃംഖലയായി ഒരു യൂണിറ്റായി വളരുന്നു അത് ചെലവ് ലാഭിക്കുന്നതിന് കാരണമാകുന്നു കൂടാതെ കൂടുതൽ നെറ്റ്വർക്കുചെയ്ത പ്രവർത്തന രീതികൾ നെറ്റ്വർക്കുചെയ്ത ഓർഗനൈസേഷനുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടാണ് ഈ പ്രഭാഷണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ഇത്രയേയുള്ളൂ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ സ്ട്രാറ്റജിക് HRM ൽ നമ്മൾ തുടരും അതിനാൽ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി